എഞ്ചിനീയർമാർക്കുള്ള ഡാറ്റാ സയൻസിലെ കോഴ് സിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ ഡാറ്റാ വിശകലനം നടത്തുന്നതിന് ഞങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയായി R അവതരിപ്പിക്കാൻ പോകുന്നു ഈ പ്രഭാഷണം ആർ സ്റ്റുഡിയോ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ ഒരു ഹ്രസ്വ ആമുഖം നൽകാൻ പോകുന്നു ആർ സ്റ്റുഡിയോയിൽ വർക്കിംഗ് ഡയറക്ടറി എങ്ങനെ സജ്ജമാക്കാം ഒരു ആർ ഫയൽ എങ്ങനെ സൃഷ്ടിക്കാം അത് സംരക്ഷിക്കാം ഒരു ആർ ഫയൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം ആർ കോഡിന്റെ കഷണങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം ആർ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഡാറ്റാ അനാലിസിസ് ഉപകരണമായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ് സ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് ആർ R സാധാരണയായി കമാൻഡ് ലൈൻ ഇന്റർഫേസുമായി വരുന്നു വ്യാപകമായി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വിൻഡോസ്ലിനക്സ് മാക് ഓയെസ് windowslinuxMacOS എന്നിവയിലുടനീളം R ലഭ്യമാണ് നമുക്ക് നോക്കാം എന്താണ് ആർ സ്റ്റുഡിയോ ആർ സ്റ്റുഡിയോ ഒരു സംയോജിത വികസന അന്തരീക്ഷം ഒരു ജിയുഐ ആണ് അവിടെ നിങ്ങൾക്ക് ഉദ്ധരണികൾ എഴുതാനും ഫലങ്ങൾ കാണാനും പ്രോഗ്രാമിംഗ് സമയത്ത് ജനറേറ്റുചെയ്യുന്ന വേരിയബിളുകൾ കാണാനും കഴിയും ആർ സ്റ്റുഡിയോ ലഭ്യമാണ് ഓപ്പൺ സോഴ്സും വാണിജ്യ സോഫ്റ്റ്വെയറും ഡെസ്ക്ടോപ്പ് പതിപ്പായും സെർവർ പതിപ്പായും ആർ സ്റ്റുഡിയോ ലഭ്യമാണ് ഈ കോഴ് സിനായി ഞങ്ങൾ ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പതിപ്പ് ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ ഈ ആർ സ്റ്റുഡിയോ ഉപയോഗിച്ച് നിങ്ങളുടെ അസൈൻമെന്റുകൾ പരിഹരിക്കാൻ കഴിയും വിൻഡോസ്ലിനക്സ് മാക് ഓയെസ് തുടങ്ങി വിവിധ പ്ലാറ്റ്ഫോമുകൾക്കും ആർ സ്റ്റുഡിയോ ലഭ്യമാണ് നിങ്ങൾ ആദ്യമായി ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു ആർ സ്റ്റുഡിയോ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഒരു ആർ സ്റ്റുഡിയോ ഇന്റർഫേസ് കാണപ്പെടുന്നത് നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇടതുവശത്ത് ഞങ്ങൾ കൺസോൾ പാനൽ കാണുന്നു അവിടെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളിൽ ടൈപ്പുചെയ്യാനും കമാൻഡുകളിൽ ടൈപ്പുചെയ്യുമ്പോൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ കാണാനും കഴിയും മുകളിൽ വലതുവശത്ത് നിങ്ങൾക്ക് പരിസ്ഥിതി ചരിത്ര പാളി ഉണ്ട് ഇതിൽ 2 തരം അടങ്ങിയിരിക്കുന്നു പരിസ്ഥിതി തരം അവിടെ പ്രോഗ്രാമിംഗ് സമയത്ത് ജനറേറ്റുചെയ്യുന്ന വേരിയബിളുകൾ കാണിക്കുന്നു ഒരു വർക്ക് സ് പെയ് സിൽ അത് താൽക്കാലികവും ചരിത്ര ടാബിലും ആർ സ്റ്റുഡിയോയുടെ ഉപയോഗത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ ഉപയോഗിക്കുന്ന എല്ലാ കമാൻഡുകളും നിങ്ങൾ കാണും വലത് ചുവടെ നിങ്ങൾക്ക് മറ്റൊരു പാനൽ ഉണ്ട് അതിൽ ഫയലുകൾ പ്ലോട്ടുകൾ പാക്കേജുകൾ സഹായം എന്നിവ പോലുള്ള ഒന്നിലധികം ടാബ് അടങ്ങിയിരിക്കുന്നു R ന്റെ സ്ഥിരസ്ഥിതി വർക്ക് സ് പെയ് സിൽ ലഭ്യമായ ഫയലുകളും ഡയറക്ടറികളും ഫയൽ ടാബ് കാണിക്കുന്നു പ്രോഗ്രാമിംഗ് സമയത്ത് ജനറേറ്റുചെയ്ത പ്ലോട്ടുകൾ പ്ലോട്ട് ടാബ് കാണിക്കുന്നു പാക്കേജുകൾ ടാബ് നോക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ആർ സ്റ്റുഡിയോയിൽ ഇതിനകം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാക്കേജുകൾ എന്തൊക്കെയാണ് പുതിയ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഇത് ഒരു ഉപയോക്തൃ ഇന്റർഫേസും നൽകുന്നു സഹായ ടാബ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ആർ ആർ ൽ നിർമ്മിച്ച ഫംഗ്ഷനുകളെക്കുറിച്ചുള്ള ആർ ഡോക്യുമെന്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും അന്തിമവും അവസാനവുമായ ടാബ് വ്യൂവർ ടാബ് ആണ് അത് ആകാം ആർ ഉപയോഗിച്ച് ജനറേറ്റുചെയ്യുന്ന പ്രാദേശിക വെബ് ഉള്ളടക്കം കാണാൻ ഉപയോഗിക്കുന്നു മറ്റ് ചില ആപ്ലിക്കേഷനുകൾ ഈ കോഴ്സിനായി നിങ്ങൾ ഈ ടാബ് വളരെയധികം ഉപയോഗിക്കാൻ പോകുന്നില്ല അതിനാൽ വ്യൂ ടാബിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കാൻ ഞങ്ങൾ സ്വയം പരിമിതപ്പെടുത്തുന്നു അതിനാൽ ആർ സ്റ്റുഡിയോ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ആശയം ലഭിച്ചു ആർ സ്റ്റുഡിയോയിൽ എങ്ങനെ വർക്കിംഗ് ഡയറക്ടറി സജ്ജമാക്കാം എന്ന് നമുക്ക് നോക്കാം ആർ സ്റ്റുഡിയോയിലെ വർക്കിംഗ് ഡയറക്ടറി 2 തരത്തിൽ സജ്ജമാക്കാൻ കഴിയും ആദ്യത്തേത് കൺസോൾ ഉപയോഗിക്കുകയും കമാൻഡ് സെറ്റ് വർക്കിംഗ് ഡയറക്ടറി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ പ്രവർത്തിപ്പിക്കുന്ന ഡയറക്ടറി സജ്ജമാക്കി ഇരട്ട കോഡുകളിൽ r സ്റ്റുഡിയോയുടെ പ്രവർത്തന ഡയറക്ടറിയാകാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറിയുടെ പാത നൽകാം R ജി യു ഐയിൽ നിന്ന് വർക്കിംഗ് ഡയറക്ടറി സജ്ജമാക്കാൻ നിങ്ങൾ ഈ 3 ഡോട്ടുകൾ ബട്ടണിൽ ക്ലിക്കുചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഇത് ക്ലിക്കുചെയ്യുമ്പോൾ ഇത് ഒരു ഫയൽ ബ്ര browser സർ തുറക്കും ഇത് നിങ്ങളുടെ പ്രവർത്തന ഡയറക്ടറി തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വർക്കിംഗ് ഡയറക്ടറി തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ടാബിൽ ഈ ക്രമീകരണ ബട്ടൺ ഉപയോഗിക്കുകയും അതിൽ ക്ലിക്കുചെയ്യുകയും തുടർന്ന് നിങ്ങൾക്ക് ഒരു പോപ്പ്അപ്പ് മെനു നേടുകയും വേണം അവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഡയറക്ടറിയായി സജ്ജമാക്കുക തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ വർക്കിംഗ് ഡയറക്ടറിയായി ഈ ഫയൽ ബ്ര browser സർ ഉപയോഗിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത നിലവിലെ ഡയറക്ടറി തിരഞ്ഞെടുക്കും Once you set the working directory you are ready to program in R Studio നിങ്ങൾ വർക്കിംഗ് ഡയറക്ടറി സജ്ജമാക്കിയുകഴിഞ്ഞാൽ ആർ സ്റ്റുഡിയോയിൽ പ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് ഒരു ആർ ഫയൽ എങ്ങനെ സൃഷ്ടിക്കാമെന്നും കുറച്ച് കോഡ് എഴുതാമെന്നും നമുക്ക് വ്യക്തമാക്കാം ഒരു ആർ ഫയൽ സൃഷ്ടിക്കുന്നതിന് 2 വഴികളുണ്ട് ആദ്യ വഴി നിങ്ങൾക്ക് ഫയൽ ടാബിൽ ക്ലിക്കുചെയ്യാം നിങ്ങൾ ക്ലിക്കുചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഡ്രോപ്പ് ഡ menu ൺ മെനു നൽകും അവിടെ നിങ്ങൾക്ക് പുതിയ ഫയലും തുടർന്ന് ആർ സ്ക്രിപ്റ്റും തിരഞ്ഞെടുക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരു പുതിയ ഫയൽ തുറക്കും മറ്റൊരു വഴി ബട്ടൺ ഉപയോഗിക്കുക എന്നതാണ് അത് ഫയൽ ടാബിന് തൊട്ടുതാഴെയാണ് കൂടാതെ ഒരു പുതിയ ആർ സ്ക്രിപ്റ്റ് ഫയൽ തുറക്കുന്നതിന് നിങ്ങൾക്ക് അവിടെ നിന്ന് R സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാം നിങ്ങൾ ഒരു ആർ സ്ക്രിപ്റ്റ് ഫയൽ തുറന്നുകഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഫയൽ തുറന്ന ഒരു ആർ സ്റ്റുഡിയോ ഇങ്ങനെയാണ് അതിനാൽ 3 പാനലുകൾ പരിസ്ഥിതി ചരിത്രവും ഫയലുകളും പ്ലോട്ടുകൾ പാനലുകളും ശേഖരിക്കുന്നു അതിനുമുകളിൽ നിങ്ങൾക്ക് ഒരു പുതിയ വിൻഡോ ഉണ്ട് അത് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഫയലായി തുറക്കുന്നു ആർ സ്റ്റുഡിയോയിൽ ഒരു സ്ക്രിപ്റ്റ് ഫയലോ ചില പ്രോഗ്രാമോ എഴുതാൻ നിങ്ങൾ തയ്യാറാണ് അതിനാൽ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് വ്യക്തമാക്കാം അവിടെ ഞാൻ 11 മൂല്യം a ഞാൻ എഴുതിയ കോഡിന്റെ ആദ്യ വരിയിൽ നിങ്ങൾക്ക് b ഉണ്ട് അത് 10 മടങ്ങ് അതാണ് രണ്ടാമത്തെ കമാൻഡ് ഞാൻ ഒരു തവണ 10 ന്റെ മൂല്യം വിലയിരുത്തുകയും ബി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നിവയ്ക്ക് മൂല്യം നൽകുകയും ചെയ്യുന്നു അത് ഒരു പ്രിന്റ് സി ആണ് b ഇത് a b എന്നിവ ചേർത്ത് ഫലം അച്ചടിക്കുക അതിനാൽ ഇങ്ങനെയാണ് നിങ്ങൾ R ൽ ഒരു സ്ക്രിപ്റ്റ് ഫയൽ എഴുതുന്നത് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ഫയൽ എഴുതിയുകഴിഞ്ഞാൽ നിങ്ങൾ ഇത് നടപ്പിലാക്കുന്നതിനുമുമ്പ് ഈ ഫയൽ സംരക്ഷിക്കണം ആർ ഫയൽ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം ഫയൽ മെനുവിൽ നിന്ന് നിങ്ങൾ ഫയൽ ടാബിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ഫയൽ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഫയൽ സംരക്ഷിക്കാൻ കഴിയും നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ഫയൽ അൺടൈറ്റ്ലെഡ് x ഉള്ളതായി ഇത് യാന്ത്രികമായി സംരക്ഷിക്കും അതിനാൽ നിങ്ങൾ ഇതിനകം എത്ര ആർ സ്ക്രിപ്റ്റുകൾ തുറന്നിട്ടുണ്ടെന്നതിനെ ആശ്രയിച്ച് ഈ x 1 അല്ലെങ്കിൽ 2 ആകാം അല്ലെങ്കിൽ സംരക്ഷിക്കുക ബട്ടണായി ഉപയോഗിക്കുന്നത് ഒരു നല്ല ആശയമാണ് സേവ് ഒന്നിന് തൊട്ടുതാഴെയായി അതിനാൽ നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫയൽ പേരുമാറ്റാൻ കഴിയും ഞങ്ങൾ ക്ലിക്കുചെയ് തിട്ടുണ്ടെന്ന് കരുതുക ബട്ടണായി സംരക്ഷിക്കുക ഇത് ഇതുപോലുള്ള ഒരു വിൻഡോ പോപ്പ് out ട്ട് ചെയ്യും അവിടെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫയലിനെ ടെസ്റ്റ് ആർ എന്ന് പുനർനാമകരണം ചെയ്യാൻ കഴിയും നിങ്ങൾ ഉദ്ദേശിച്ചുള്ളതാണ് നിങ്ങൾ പേരുമാറ്റിയുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറയാൻ കഴിയും അത് സ്ക്രിപ്റ്റ് ഫയൽ സംരക്ഷിക്കും അതിനാൽ ഒരു ആർ സ്ക്രിപ്റ്റ് എങ്ങനെ തുറക്കാമെന്നും ആർ സ്ക്രിപ്റ്റ് ഫയലിൽ ചില കോഡ് എങ്ങനെ എഴുതാമെന്നും ഞങ്ങൾ കണ്ടു ആർ ഫയൽ നടപ്പിലാക്കുക എന്നതാണ് അടുത്ത ചുമതല ആർ ഫയലിൽ ലഭ്യമായ കമാൻഡുകൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് നിരവധി മാർഗങ്ങളുണ്ട് റൺ കമാൻഡ് ഉപയോഗിക്കുക എന്നതാണ് ആദ്യ മാർഗം ഈ റൺ കമാൻഡ് അവിടെ റൺ ബട്ടൺ അമർത്തിക്കൊണ്ട് ജിയുഐ ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറുക്കുവഴി കീ ഉപയോഗിക്കാം ഇത് നിയന്ത്രണം നൽകുക അത് എന്താണ് ചെയ്യുന്നത് കഴ് സർ ഉള്ള വരി അത് നടപ്പിലാക്കും മറ്റൊരു വഴി R കോഡ് ' R ' ecose R ഉറവിടം ഉപയോഗിച്ച് എക്കോ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതാണ് പ്രതിധ്വനി ഉള്ള ഉറവിടവും ഉറവിടവും തമ്മിലുള്ള വ്യത്യാസം ഇനിപ്പറയുന്നവയാണ് ഉറവിട കമാൻഡ് മുഴുവൻ ആർ ഫയലും നടപ്പിലാക്കുകയും നിങ്ങൾ അച്ചടിക്കാൻ ആഗ്രഹിക്കുന്ന output ട്ട് പുട്ട് മാത്രം അച്ചടിക്കുകയും ചെയ്യുന്നു അതേസമയം എക്കോ ഉള്ള ഉറവിടം നിങ്ങൾ അച്ചടിക്കുന്ന output ട്ട് പുട്ടിനൊപ്പം കമാൻഡുകളും അച്ചടിക്കുന്നു അതിനാൽ ഇത് ഒരു ഉദാഹരണമാണ് അവിടെ ഞാൻ ആർ ഫയൽ നടപ്പിലാക്കി ഉറവിടം എക്കോ ഉപയോഗിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺസോളിൽ കാണാൻ കഴിയും 11 b ഒരു സമയം 10 എന്ന കമാൻഡ് മൂല്യങ്ങളുള്ള ഒരു output ട്ട് പുട്ട് പ്രിന്റ് സി എന്നിവയും ഇത് അച്ചടിച്ചു അതിനാൽ 11 b 11 തവണ 10 ഇത് 110 ആണ് അതിനാൽ ഇങ്ങനെയാണ് output ട്ട് പുട്ട് കൺസോളിൽ അച്ചടിക്കും അതിനാൽ അതാണ് ഫലം ഇപ്പോൾ ആർ എന്നിലെ കോഡ് കഷണങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ സിംഗിൾ ലൈൻ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് റൺ കമാൻഡ് ഉപയോഗിക്കാം ശരിയാണ് ഇപ്പോൾ ഒരു മൂല്യത്തിന് 14 നിയോഗിക്കാൻ ശ്രമിക്കാം തുടർന്ന് അത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാം അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും നിങ്ങളുടെ കഴ് സർ വരിയിലേക്ക് കൊണ്ടുപോകുക എഡിറ്റുചെയ്യാനും ആ 11 മാറ്റിസ്ഥാപിക്കാനും തുടർന്ന് നിയന്ത്രണ എന്റർ അല്ലെങ്കിൽ റൺ ബട്ടൺ ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നു ഇത് കഴ് സർ സ്ഥാപിച്ചിരിക്കുന്ന വരി മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ പരിസ്ഥിതി പാളിയിൽ ഒരു മൂല്യം മാത്രം മാറ്റി ബി മൂല്യം അതേപടി തുടരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം കോഡിന്റെ 2 വരി മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളൂ അത് ഒരു മൂല്യത്തെ മാറ്റുന്നു പക്ഷേ ഞങ്ങൾ 3 ാം വരി കോഡ് നടപ്പാക്കിയിട്ടില്ല അതിനാൽ ബി മൂല്യം ഓർമ്മപ്പെടുത്തുന്നു ഒരു മൂല്യം മാറി പക്ഷേ ബി യുടെ മൂല്യമല്ല ചുരുക്കത്തിൽ ആർ കോഡിന്റെ തിരഞ്ഞെടുത്ത വരികൾ നടപ്പിലാക്കാൻ റൺ ഉപയോഗിക്കാമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും മുഴുവൻ ഫയലും പ്രവർത്തിപ്പിക്കാൻ എക്കോ ഉള്ള ഉറവിടവും ഉറവിടവും ഉപയോഗിക്കാം റൺ ഉപയോഗിക്കുന്നതിന്റെ ഗുണം നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്തെങ്കിലും പെരുമാറാത്തപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം പരിഹരിക്കാനോ ഡീബഗ് ചെയ്യാനോ കഴിയും റൺ കമാൻഡ് ഉപയോഗിക്കുന്നതിന്റെ പോരായ്മകൾ അത് കൺസോളിനെ പോപ്പ് ചെയ്യുകയും അനാവശ്യമായി കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു അടുത്ത പ്രഭാഷണത്തിൽ ആർ ഫയലിലേക്ക് എങ്ങനെ അഭിപ്രായങ്ങൾ ചേർക്കാമെന്നും സിംഗിൾ ലൈനിലേക്കും ഒന്നിലധികം ലൈനുകളിലേക്കും എങ്ങനെ അഭിപ്രായങ്ങൾ ചേർക്കാമെന്നും ഞങ്ങൾ കാണാൻ പോകുന്നു